നമ്മൾ ചെയ്തത്ഈ കൺസ്ട്രൈന്റിൽ എത്തിച്ചേരാൻ വളരെ കൃത്യമായ ഗണിതശാസ്ത്ര മാർഗം ഉപയോഗിച്ചു ഇവിടെ എത്തിച്ചേരാൻ നമ്മൾ ചെയ്തതിനേക്കാൾ വളരെ രസകരമായതുംകൂടുതൽ അവബോധജന്യമായതുമായ മറ്റു മാർഗങ്ങൾ ഉണ്ട് അവബോധജന്യമായ മാർഗത്തിലൂടെ സ്റ്റബിലിറ്റി മാനദണ്ഡത്തിൽ എത്തിച്ചേരാൻ എന്താണ് ഞാൻ ചെയ്യാൻ പോവുന്നത് ആദ്യം ഞാൻ ഒരു ലളിതമായ 1D ഗ്രിഡ് വരക്കുംഅതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ലീപ്ഫ്രോഗ് സ്കീം അങ്ങനെ നമ്മുടെ ഗ്രിഡിൽ ഇതാണെന്റെ സ്പേസ് ഇതാണെന്റെ ടൈം ഇവിടെ ഞാൻ പരിഗണിക്കാൻ പോവുന്നത് ഇതാണ് എന്റെ ഇതാണെന്റെ ഇതാണെന്റെ എനിക്ക് വേണ്ട മറ്റു വാരിയബിളുകൾ എന്തൊക്കെയാണ് E യും H ഉം ടൈമിലും സ്പേസിലും വാരിയബിൾസ് പകുതി ഗ്രിഡിനാൽ സ്റ്റാഗർ ചെയ്യും എന്നുള്ളത് ഓർമിക്കണം ഇതാണ് എന്റെ അതിനെ Hy എന്ന് വില്ക്കാം അതിനാൽ Hyi ½ അനുബന്ധമായി അവിടെയും Hyi ½ഉം ഉണ്ടാവും ടൈമിന്റെ അടിസ്ഥാനത്തിൽ ഇത് n ആയതിനാൽ ഇത് n½ ഉം ഇത് n ½ ഉം ആവും Ezഉം Hy യും മാത്രം ഞാൻ എടുത്തിട്ടുണ്ട് TE പോളറൈസേഷൻ ഞാൻ ഇതിലൊരു ഇക്വേഷനിൽ നോക്കുകയാണ് അതായത് ഇതിന്റെ ഡിഫറെൻഷിയൽ ഇക്വേഷൻ ഇതായിരുന്നു TM കേസിൽ ഇതാണ് എനിക്ക് കിട്ടിയ ഇക്വേഷൻ Ez Hx Hy Hy യുടെ ഇക്വേഷൻ ആണിത് നമ്മൾ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് ഇതാണ് എന്റെ ആണ് ഇവിടെയുള്ള മുഴുവൻ ഇത് നമുക്ക് പടിപടിയായി എഴുതാം Ez നാൽ വേർതിരിക്കപ്പെട്ടിരിക്കുന്നു അത് നമുക്ക് അറിയാവുന്നതാണ് എന്താണ് അടുത്തത് സിഗ്നൽ പോവാൻ ആവശ്യമായ ടൈം എന്താണ് അതായത് ൽ നിന്ന് i ലേക്ക് സിഗ്നൽ പോവാൻ ആവശ്യമായ സമയം സ്പേസിലും ടൈമിലും പ്രൊപോഗേറ്റ്ചെയ്യുന്ന ഒരു ഭൌതിക വേവ് അവിടെ ഉണ്ടെന്ന് വിചാരിക്കുക അപ്പോൾ വേവ് ൽ നിന്നും i ലേക്ക് പോവാൻ എടുക്കുന്ന ഏറ്റവും കുറഞ്ഞ സമയം എത്രയായിരിക്കും എന്തായിരിക്കും ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ്എന്ത് കൊണ്ടാണ് 1 വിദ്യാർത്ഥി സ്റ്റാറ്റിസ്റ്റിക്സ് ഡിസ്റ്റൻസ് ഈ വേവ് ന് കഴിയുന്നത്ര വേഗത്തിൽ പോവാൻ കഴിയുന്ന സ്പീഡ് എത്രയാണ്c മൂന്നാമത്തെ പോയിന്റ് മിനിമംആണ് ഈ മിനിമം നെ ഞാൻ തൌ എന്ന് വിളിക്കുന്നു ന്റെ മൂല്യം ആണ് സിഗ്നലിന് ഇവിടെ നിന്നും ഇവിടേക്ക് പോവാൻ അതായത് ഇടത് നിന്നും വലത്തേക്ക് പോവാൻ ആവശ്യം ഉള്ള മിനിമം ടൈം ലാപ്സ് ആവുന്നതിനു മുമ്പ് ഞാൻ എന്റെ അപ്ഡേറ്റ് ഇക്വേഷൻ ഉപയോഗിക്കണം എന്താണ് എന്റെ അപ്ഡേറ്റ് ഇക്വേഷൻ മുകളിൽ ഉള്ള ഈ ഇക്വേഷൻ നോക്കുക എനിക്ക് ഇങ്ങനെ എഴുതാൻ കഴിയും ഇതാണ് എന്റെ അപ്ഡേറ്റ് ഇക്വേഷൻ മൂല്യനിർണ്ണയം നടത്തുന്നതിൽ എന്തൊക്കെ മൂല്യങ്ങൾ ആണ് ഉൾപ്പെട്ടിരിക്കുന്നത് ഇത് സ്പേസിലെ അതേ സ്ഥാനത്ത് ആയിരിക്കും പക്ഷെ വ്യത്യസ്ത ടൈം ലൊക്കേഷനിൽമുമ്പത്തെ ടൈം ലൊക്കേഷൻ ഇപ്പോൾ ഇത് വിദ്യാർത്ഥി മൈനസ് മൈനസ് വിദ്യാർത്ഥി ഡെൽറ്റ ഇവിടെ ഒരു ഉണ്ട് ഇതാണ് ഇക്വേഷൻ ഈ പീരീഡ് ഓഫ് ഇന്റർവെൽ പോവുന്നതിനു മുമ്പ് ഞാൻ എന്റെ അപ്ഡേറ്റ് ഇക്വേഷൻഉപയോഗിക്കണം കാരണം ഞാൻ അപ്ഡേറ്റ് ഇക്വേഷൻ ഉപയോഗിച്ചില്ലെങ്കിൽ ഇവിടെയുള്ള ഈ ന് പുതിയ മൂല്യം കിട്ടും അത് കൊണ്ട് ഞാൻ അപ്ഡേറ്റ് ഇക്വേഷൻഉപയോഗിക്കുന്നു പക്ഷെ അതിനുള്ളിലെ മൂല്യം തെറ്റാണ് എനിക്ക് ന് പഴയ മൂല്യം ഉപയോഗിക്കുമായിരുന്നുഞാൻ അങ്ങനെ ചെയ്യുന്നില്ല അത്കൊണ്ട് വേവ് ഭൌതികമായി പോകുന്നതിനു മുമ്പ് എനിക്ക് പെട്ടെന്ന് അപ്ഡേറ്റ് ഇക്വേഷൻ ഉപയോഗിക്കേണ്ടതുണ്ട് എന്റെ വാരിയബിളുകൾ ഭൌതികശാസ്ത്രത്തോട് വിശ്വസ്തത പുലർത്തുമ്പോൾ തന്നെ ടൈം ഇൻസ്റ്റന്റ് n ൽ ഉള്ള ആണ് എന്റെ വരിയബിൾസ് ഞാൻ ഇവയുടെ ഉള്ളിൽ മൂല്യങ്ങൾ സബ്സ്റ്റിട്യൂട്ട് ചെയ്താൽ അത് യഥാർത്ഥത്തിൽ സ്പേസിലെയും ടൈമിലെയും പോയിന്റ്റുകളിലെ ഫീൽഡിന്റെ മൂല്യം ആയിരിക്കും ഞാൻ കൂടുതൽ സമയം കാത്തിരിക്കുകയാണെങ്കിൽ ഈ ഫോർമുല ഉപയോഗിക്കും പക്ഷെ ഞാൻ ഉള്ളിൽ ഇട്ട നമ്പറുകൾ തെറ്റവും കാരണം അത് പഴയതിനെ സൂചിപ്പിക്കുന്നതാണ് വേവ് ഇതിനകം ഭൌതികമായി പോയിരിക്കുന്നു അതായത് എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം എനിക്ക് ലൈറ്റ് കാൽക്യൂലേഷനെക്കാളുംവേഗത്തിൽ ചെയ്യണം അവിടെ ലൈറ്റ് എത്തുന്നതിനു മുമ്പ് എനിക്ക് ഈ അപ്ഡേറ്റ് ഇക്വേഷൻ ഉപയോഗിക്കണം ഇത് ടൈം സ്റ്റെപ്പിനെസൂചിപ്പിക്കുന്നു ഇത് തൌ നേക്കാളും കൂടുതൽ ആണോ കുറവാണോ കുറവായിരിക്കും അതാണ് നമുക്ക് മുമ്പ് കിട്ടിയത് അതേ ഇത് വളരെ നല്ലതാണ് നമ്മൾ വിചാരിക്കും c ന്റെ മൂല്യം വലുതാണ് അത്കൊണ്ട് ന്റെ മൂല്യം ചെറിതായിരിക്കും എന്ന് പക്ഷെ അങ്ങനെ അല്ല ചിന്തിക്കേണ്ടത് യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ടത് അവിടെ കോൺസ്റ്റന്റ് ഫ്രീക്വൻസിയിൽ ൽ ഒരു വേവ് ഉണ്ട് ആ നെ എനിക്ക് ആയി എഴുതാൻ കഴിയും അപ്പോൾ നമ്മൾ ശരിക്കും നോക്കുന്നത്ഈ ഉം ഈ ടൈം പീരീഡ് T യും തമ്മിലുള്ള താരതമ്യം ആണ് അത് വലിയ ഒരു നമ്പർ ആവില്ല ഉദാഹരണമായി നിങ്ങൾ ഒപ്റ്റിക്കൽ ഫ്രീക്വൻസിയിൽ ആണെന്ന് വിചാരിക്കുക എന്താണ് ഒമേഗ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മൈക്രോവേവ്ഉണ്ടെന്നു വിചാരിക്കുക1 ഗിഗഹെർട്ട്സ് 10 to 9 ആണ് അപ്പോൾ എന്താണ് അവിടെയുള്ള ടൈം പീരീഡ് വിദ്യാർത്ഥി 10 to മൈനസ് 9 നിങ്ങൾക്ക് എന്ത് തരും വീണ്ടും ചെറിയ നമ്പറുകൾ ആയിരിക്കും അതിനാൽ വളരെ ചെറിയ നമ്പർ ആയി തോന്നും പക്ഷെ വേവിന്റെ ടൈം പീരീഡുമായി ബന്ധപ്പെട്ട് കാണുമ്പോൾ അത് അത്ര ചെറുതായിരിക്കില്ല ഇതാണ് ഈ സ്റ്റെബിലിറ്റി മാനദണ്ഡത്തിൽ എത്തിച്ചേരാനുള്ള അവബോധജന്യമായ വഴി വിദ്യാർത്ഥി ആശ്രയിച്ചിരിക്കുന്നു അതേ വീണ്ടും മൂന്നാമത്തെ ഭാഗം ആദ്യത്തെ ഭാഗം മനസ്സിലായല്ലോ നെ കൊണ്ട് വേർതിരിച്ചു ഈ ഇക്വേഷനിൽ Hy അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ എന്തൊക്കെ ഉപയോഗിക്കണം ഫോർമുല ക്ക് അനുസരിച്ചു ഞാൻ ഇവ 3 നെയും ഉപയോഗിക്കണം ഇപ്പോൾ ഞാൻ ഈ ഇക്വേഷനുകൾ ഉപയോഗിക്കാൻ പോവുമ്പോൾ ഇവ പ്രതിനിധീകരിക്കുന്നത് ഈ ക്വാണ്ടിറ്റീസ് ന്റെ ഇപ്പോഴത്തെ എസ്റ്റിമേറ്റ്സ് ആണ് പക്ഷെ ഞാൻ ഡെൽറ്റ x by c യെക്കാളും കൂടുതൽ സമയം കാത്തിരുന്നാൽ വേവ് ൽ നിന്നും ലേക്ക് ഭൌതികമായി സഞ്ചരിച്ചിരിക്കും പക്ഷെ ഞാൻ എന്റെ വാരിയബിളിനെ ടൈം അപ്ഡേറ്റ് ചെയ്യാത്തതിനാൽ Ez ൽ അതിന് പഴയ മൂല്യം ആയിരിക്കും അതിനാൽ ഞാൻ ഈ ഇക്വേഷൻ ഉപയോഗിക്കുമ്പോൾ ഞാൻ Ez ന്റെ പഴയ പതിപ്പ് ആയിരിക്കും ഉപയോഗിക്കുന്നത് അത് ഒഴിവാക്കാൻ ഞാൻ പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നു വേവ് അവിടെ എത്തുന്നതിനു മുന്നേ അപ്പോൾ ഞാൻ ഇക്വേഷൻ ഉപയോഗിക്കുമ്പോൾ ശരിക്കും ഉള്ള മൂല്യം ആണ് ഉപയോഗിക്കുന്നത് അതായത് എന്റെ ഏറ്റവും നല്ല എസ്റ്റിമേറ്റ് ഇത് പറയുന്നത് ഡെൽറ്റ t തൌ നേക്കാളും കുറവായിരിക്കണം എന്നാണ് വിദ്യാർത്ഥി അതെങ്ങനെ ഇത് വെറും ചിന്താ പരീക്ഷണം ആണ് വേവ് ഫ്രീ സ്പേസിലൂടെ പോവുന്നുവാരിയബിളുകളോട് വിശ്വസ്ഥത പുലർത്തുന്ന തരത്തിൽ എത്ര പെട്ടെന്ന് എല്ലാം സിമുലേറ്റ് ചെയ്യാം എന്ന് നമ്മൾ പറയുന്നു ഇവയെല്ലാം ഐൻസ്റ്റീൻവിളിച്ചത് പോലെ വെറും ഗെടാങ്കൻചിന്താ പരീക്ഷണങ്ങൾ ആണ് ഈ സ്റ്റെബിലിറ്റിമാനദണ്ഡത്തിൽ എത്തിച്ചേരാൻ നമ്മൾ ഉപയോഗിച്ച അവബോധജന്യമായ വഴിയുടെ നല്ല വശം എന്തെന്നാൽ ഈ ആശയം ഹയർ ഡയമെൻഷനിൽ സാമാന്യവൽക്കരിക്കാൻ എളുപ്പമാണ് 1D കുഴപ്പമില്ല പക്ഷെ 2D യിൽ കുറാന്റ് സ്റ്റബിലിറ്റിമാനദണ്ഡം ഒന്ന് തന്നെയാണോ എന്ന ഒരു ചോദ്യം വരാം ഇവിടെ നിങ്ങൾ റൂട്ട് 2 ന്റെയും റൂട്ട് 3 യുടെയും ഫാക്ടെർസ് കണ്ടു പിടിക്കണം